നമസ്കാരം ക്യാറ്റഗറീസ് ഓഫ് എഞ്ചിനീയറിംഗ് നോലെഡ്ജ് അഥവാ എഞ്ചിനീയറിംഗ് വിജ്ഞാന വിഭാഗങ്ങളെക്കുറിച്ചുള്ള മൊഡ്യൂൾ 1 യൂണിറ്റ് 13 ലേക്ക് സ്വാഗതം മുമ്പത്തെ യൂണിറ്റിൽ മെറ്റാകോഗ്നിറ്റീവ് അറിവ് എന്താണെന്നും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി കൂടാതെ ദുർബലരായ വിദ്യാർത്ഥികൾക്ക് മെറ്റാകോഗ്നിറ്റീവ് കഴിവുകളിൽ നിർദ്ദേശം നൽകേണ്ടതിന്റെ പ്രാധാന്യവും നാം മനസ്സിലാക്കി കൂടാതെ മെറ്റാകോഗ്നിറ്റീവ് അറിവിന്റെ സ്വഭാവവും മനസ്സിലാക്കി ഇപ്പോൾ ഈ യൂണിറ്റിലേക്ക് വരുമ്പോൾ എഞ്ചിനീയറിംഗ് പരിജ്ഞാനത്തിന്റെ വിഭാഗങ്ങളുടെ സ്വഭാവവും പ്രാധാന്യവും മനസിലാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇതാണ് ഉള്ളത് എഞ്ചിനീയറിംഗ് നോലെഡ്ജ് അഥവാ പരിജ്ഞാനം എന്ന് നാം ഇതിനകം നോക്കിയതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ഉണ്ടോ ഫാക്ച്വൽ കൺസെപ്ച്വൽ പ്രൊസീഡ്യൂറൽ മെറ്റാകോഗ്നിറ്റീവ് എന്ന നാല് പൊതുവിജ്ഞാന വിഭാഗങ്ങളെ നാം പരിശോധിച്ചു മറ്റേതെങ്കിലും വിജ്ഞാന വിഭാഗത്തെ നാം ശരിക്കും പരിഗണിക്കേണ്ടതുണ്ടോ ചില ആളുകൾ അതിൽ വ്യത്യസ്ത അഭിപ്രായം കാണിക്കുന്നു അതിനാൽ എഞ്ചിനീയർമാരും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട ചില പ്രത്യേക വിജ്ഞാന വിഭാഗങ്ങൾ ഉണ്ടോയെന്ന് അറിയണം അതിനാൽ നാം അടിസ്ഥാനത്തിലേക്ക് മടങ്ങണം എഞ്ചിനീയറിംഗ് എന്താണ് എന്ന് നാം ചോദിക്കേണ്ടതുണ്ട് എഞ്ചിനീയറിംഗ് ശാസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമാണോ എഞ്ചിനീയറിംഗ് ശാസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ ഏത് വിധത്തിൽ ഇത് വ്യത്യസ്തമാണ് ആരാണ് നല്ല എഞ്ചിനീയർ ആദ്യകാല മൊഡ്യൂളുകളിൽ ആരാണ് എഞ്ചിനീയറിംഗിൽ മികച്ചത് എന്നതിനെക്കുറിച്ച് നാം ഇതിനകം സംസാരിച്ചു ഒരു നല്ല എഞ്ചിനീയറുടെ സ്വഭാവം നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ ഔദ്യോഗികമായി നിർവചിക്കുന്നു നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ടെങ്കിൽപ്പോലും നാം അതിൽ തർക്കിക്കില്ല പ്രോഗ്രാം ഫലങ്ങൾ എന്ന് വിളിക്കുന്നതിലൂടെ ഔദ്യോഗികമായി ഇത് നിർവചിക്കപ്പെടുന്നു ഇപ്പോൾ കഴിഞ്ഞ 150 വർഷമായി എഞ്ചിനീയറിംഗിനെക്കുറിച്ച് നിരവധി വിവരണങ്ങളും നിർവചനങ്ങളും ഉണ്ട് ഇവിടെ നാം രണ്ടോ മൂന്നോ നോക്കുന്നു ഇതിന്റെ നിരവധി വകഭേദങ്ങളുണ്ട് പക്ഷേ അവസാനം അവയെല്ലാം ഏകദേശം ഒരേ കാര്യം തന്നെ പറയുന്നു അംഗീകൃതമായ ചില ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നമുക്ക് ചുറ്റുമുള്ള ഭൌതിക ലോകത്തെ പരിവർത്തനം ചെയ്യുന്ന ഏതൊരു ഉപായത്തിന്റെയും ഉപകരണത്തിന്റെയും രൂപകൽപ്പന നിർമ്മാണം പ്രവർത്തനം എന്നിവ സംഘടിപ്പിക്കുന്ന രീതിയെ എഞ്ചിനീയറിംഗ് എന്ന് സൂചിപ്പിക്കുന്നു ഇത് നിർവചനത്തിന്റെ ഒരു മാർഗമാണ് നമുക്ക് ചുറ്റുമുള്ള ഭൌതിക ലോകത്ത് തിരിച്ചറിയേണ്ട ഒരു ആവശ്യമുണ്ട് കൂടാതെ എഞ്ചിനീയറിംഗ് ആരുടെയെങ്കിലും ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഏതൊരു ഉപായത്തിന്റെയും ഉപകരണത്തിന്റെയും രൂപകൽപ്പനയും നിർമ്മാണവും പ്രവർത്തനവും സംഘടിപ്പിക്കുന്നു അതേ കാര്യം പറയാനുള്ള മറ്റൊരു മാർഗ്ഗമാണിത് പഠനം അനുഭവം പരിശീലനം എന്നിവയിലൂടെ നേടിയ ഗണിതശാസ്ത്രം പ്രകൃതിശാസ്ത്രം എന്നിവയെക്കുറിച്ചുള്ള അറിവ് മനുഷ്യന്റെ പ്രയോജനത്തിനായി പ്രകൃതിയിലെ വസ്തുക്കളെയും ശക്തികളെയും ലാഭകരമായി ഉപയോഗപ്പെടുത്തുന്നതിനുള്ള മാർഗ്ഗങ്ങൾ വികസിപ്പിക്കുന്നതിന് നിർണ്ണയം കൈക്കൊള്ളുന്ന ഒരു തൊഴിലാണ് എഞ്ചിനീയറിംഗ് ഇത് ABET നൽകിയ നിർവചനം ആണ് മുന്നതേത് റോജേഴ്സ് നൽകിയ നിർവചനം ആണ് ഇപ്പോൾ രസകരമെന്നു പറയട്ടെ ഒരു അക്രഡിറ്റിംഗ് ഓർഗനൈസേഷൻ പോലും പ്രോസസ്സ് പോലുള്ള ഒന്ന് ഔട്ട്പുട്ടിന് മുമ്പായി അവതരിപ്പിക്കുന്നു ആദ്യം നിങ്ങൾ പ്രക്രിയയെ നിർവചിക്കുന്നു അതായത് വിവിധ മാർഗങ്ങളിലൂടെ നേടിയ അറിവ് ന്യായവിധിയോടെ പ്രയോഗിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ലക്ഷ്യം പ്രകൃതിയിലെ വസ്തുക്കളെയും ശക്തികളെയും ലാഭകരമായി മനുഷ്യരാശിയുടെ പ്രയോജനത്തിനായി വിനിയോഗിക്കാനുള്ള വഴികൾ വികസിപ്പിക്കുക അതാണ് ലക്ഷ്യം അത് അവസാനത്തേക്കാൾ തുടക്കത്തിലാണ് വരേണ്ടത് നിർഭാഗ്യവശാൽ പലതവണ ഫലങ്ങൾ എഴുതുന്ന രീതി അതാണ് ഇതിന്റെ നിരവധി വകഭേദങ്ങളുണ്ട് അവ പരസ്പരം വലിയ വ്യത്യാസമില്ല സാഹചര്യം ഉപയോഗത്തിന്റെ വിവിധ വശങ്ങൾ അല്ലെങ്കിൽ ആർട്ടിഫിസ് രൂപകൽപ്പന എന്നിവയെ ആശ്രയിച്ച് അവ ഊന്നിപ്പറയുന്നു എഞ്ചിനീയറിംഗ് എന്നാൽ അതാണ് ഇപ്പോൾ സയൻസ് എഞ്ചിനീയറിംഗ് എന്നിവയുടെ രസകരമായ നിർവചനങ്ങൾ ഇതാ അവ എഴുതിയ രീതി അവ പരസ്പരം വളരെ അടുത്ത് കൊണ്ടുവരുന്നു ശാരീരിക രാസ ജൈവ പെരുമാറ്റ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പ്രതിഭാസങ്ങളുടെ അന്വേഷണ പ്രക്രിയയാണ് ശാസ്ത്രം ഈ പ്രതിഭാസങ്ങളെ അന്വേഷിക്കുന്ന പ്രക്രിയ അന്വേഷിക്കേണ്ട പ്രതിഭാസങ്ങളുടെ തിരഞ്ഞെടുപ്പ് മുതൽ ഫലങ്ങളുടെ സാധുത നിർണ്ണയിക്കുന്നതുവരെ അന്വേഷകൻ ചെയ്യുന്നതെല്ലാം ഉൾപ്പെടുത്തുന്നതിന് കൂട്ടായ അർത്ഥത്തിൽ പ്രോസസ്സ് ഉപയോഗിക്കുന്നു ഇവിടെ ശാസ്ത്രത്തിൽ എന്താണ് സംഭവിക്കുന്നത് പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു ഒരു പ്രത്യേക പ്രതിഭാസത്തിന്റെ വിവിധ വസ്തുതകൾ തമ്മിലുള്ള ബന്ധം നിങ്ങൾ യഥാർത്ഥത്തിൽ കണ്ടെത്തുകയാണ് നിങ്ങൾ വന്ന ഏത് നിഗമനത്തിലും നിങ്ങൾ പറയണം അതിന്റെ സാധുത സ്ഥാപിക്കണം അതേസമയം എഞ്ചിനീയറിംഗ് എന്നത് പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നതിനെക്കുറിച്ചുള്ള അന്വേഷണ പ്രക്രിയയാണ് മാത്രമല്ല പ്രശ്നം അംഗീകരിക്കുന്നതുമുതൽ പരിഹാരത്തിന്റെ സാധുതയുടെ തെളിവ് വരെ അന്വേഷകൻ ചെയ്യുന്നതെല്ലാം ഉൾക്കൊള്ളുന്നു അതിനാൽ ഹൈലൈറ്റ് ചെയ്ത പോയിന്റുകളാണ് ശാസ്ത്രവും എഞ്ചിനീയറിംഗും തമ്മിലുള്ള താരതമ്യത്തിനുള്ള പോയിന്റുകൾ ഇവിടെ ഇവ രണ്ടും എഴുതിയ ഒരാൾ കഴിയുന്നത്ര ഇവ പരസ്പരം അടുപ്പിക്കാൻ ശ്രമിക്കുന്നു ഇതിലേക്ക് വരുമ്പോൾ ശാസ്ത്രജ്ഞരെക്കാൾ കൂടുതൽ തവണ നിങ്ങൾ എഞ്ചിനീയറിംഗ് പ്രൊഫസർമാർ തന്നെ എഞ്ചിനീയറിംഗിനെ അപ്ലൈഡ് സയൻസ് എന്ന് വിളിക്കാൻ ശ്രമിക്കുന്നത് വളരെ നിർഭാഗ്യകരമാണ് ആകസ്മികമായി എഞ്ചിനീയറിംഗിനെ അപ്ലൈഡ് സയൻസ് അഥവാ പ്രായോഗിക ശാസ്ത്രം എന്ന് വിളിക്കുന്നത് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളുണ്ടാക്കുന്നു അതിലേക്കു നാം കടക്കുന്നില്ല എന്നാൽ എഞ്ചിനീയറിംഗ് പ്രായോഗിക ശാസ്ത്രമാണെന്ന് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ അതിനർത്ഥം അതിൽ ചില നാമവിശേഷണങ്ങൾ ചേർത്ത ശാസ്ത്രമാണ് അതിനാൽ ഇത് ശാസ്ത്രത്തിന്റെ ഒരു ഉപവിഭാഗമായി മാറുന്നു അതിനാൽ സംഭവിക്കുന്നത് ഇതാണ് എഞ്ചിനീയറിംഗിന്റെ കാഴ്ചപ്പാട് എങ്കിൽ എഞ്ചിനീയറിംഗ് സയൻസ് പ്രയോഗിച്ചാൽ ശാസ്ത്രത്തിന്റെ ജ്ഞാനശാസ്ത്രം പഠിക്കുന്നത് എഞ്ചിനീയറിംഗിന്റെ വിജ്ഞാന ഉള്ളടക്കത്തെ യാന്ത്രികമായി ഉൾക്കൊള്ളണം അതിനർത്ഥം നാം ഇതിനകം തന്നെ നാല് വിഭാഗത്തിലുള്ള ശാസ്ത്ര പരിജ്ഞാനത്തെക്കുറിച്ച് സംസാരിച്ചു എന്നിട്ട് നിങ്ങൾ അത് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ എഞ്ചിനീയറിംഗിനു പ്രസക്തമായ കാര്യങ്ങളും നിങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാൽ നാം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന നിലപാട് അതല്ല വാസ്തവത്തിൽ നമ്മളുടെ അനുഭവം കാണിക്കുന്നത് നിങ്ങൾ എഞ്ചിനീയറിംഗ് അധ്യാപകരെയോ എഞ്ചിനീയറിംഗ് വിഷയങ്ങൾ പഠിപ്പിക്കുന്നവരെയോ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ അന്വേഷിക്കുകയാണെങ്കിൽ അവരിൽ പലരും പ്രായോഗിക ശാസ്ത്ര സങ്കൽപ്പത്തിൽ ആരംഭിക്കുമ്പോൾ അല്പം അന്വേഷിച്ച് അവർ വന്ന് പറയും എഞ്ചിനീയറിംഗും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ എഞ്ചിനീയറിംഗ് ശാസ്ത്രത്തിന്റെ ഒരു ഉപവിഭാഗമോ ശാസ്ത്രത്തിന്റെ സൂപ്പർസെറ്റോ അല്ല അത് വ്യത്യസ്തമായ ഒന്നാണ് അതിന്റെ ലക്ഷ്യങ്ങളും രീതികളും ശാസ്ത്രത്തിന്റെ ലക്ഷ്യങ്ങളിൽ നിന്നും രീതികളിൽ നിന്നും വ്യത്യസ്തമാണെന്ന അർത്ഥത്തിൽ വ്യത്യസ്തമാണ് ഇപ്പോൾ നിങ്ങൾ ഇത് നോക്കിയാൽ വ്യക്തമായും രണ്ടും തമ്മിൽ ശക്തമായ ഇടപെടൽ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ശാസ്ത്രവും എഞ്ചിനീയറിംഗും തമ്മിലുള്ള വിഭജനം നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര വലുതാക്കാം അപ്പോഴും എഞ്ചിനീയറിംഗിൽ ശാസ്ത്രത്തിന് പുറത്തുള്ളതോ പ്രായോഗിക ശാസ്ത്രത്തിന് പുറത്തുള്ളതോ ആയ ഭാഗങ്ങൾ നിലനിൽക്കുന്നു ശാസ്ത്രത്തിന് പുറത്ത് നിലനിൽക്കുന്ന ആ ഭാഗത്തിന്റെ സ്വഭാവം എന്താണ് അത് എഞ്ചിനീയറിംഗിന് പ്രധാനമാണ് നിർഭാഗ്യവശാൽ എഞ്ചിനീയറിംഗ് പ്രധാനമായും വളരെക്കാലം ആയി പഠിപ്പിച്ച രീതി അതിനെ പ്രായോഗിക ശാസ്ത്രമാക്കി മാറ്റി അതിനർത്ഥം എഞ്ചിനീയറിംഗ് വിഷയങ്ങൾ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളിൽ നിന്ന് എങ്ങനെയെങ്കിലും നീക്കം ചെയ്യപ്പെടുകയും അവ പ്രധാനമായും എഞ്ചിനീയറിംഗ് സയൻസ് പ്രോഗ്രാമുകളായി മാറുകയും ചെയ്തു എഞ്ചിനീയറിംഗ് സയൻസുകൾ അപ്രധാനമാണ് എന്നല്ല എന്നാൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിൽ നിന്ന് എഞ്ചിനീയറിംഗ് വലിച്ചെറിയാൻ കഴിയില്ല ശാസ്ത്രത്തിന് പുറത്തുള്ളതും എഞ്ചിനീയറിംഗിനുള്ളിലുള്ളതുമായ മേഖലകൾ പങ്കെടുക്കാത്തതിനാലാണിത് അതിനാൽ ശാസ്ത്രത്തിന്റെയും എഞ്ചിനീയറിംഗിന്റെയും ഈ ബന്ധം ആരെങ്കിലും അംഗീകരിക്കുകയാണെങ്കിൽ ശാസ്ത്രത്തിന് പുറത്തുള്ള എഞ്ചിനീയറിംഗിന്റെ അറിവിന്റെ സ്വഭാവം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് അതാണ് നാം ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ പ്രൊഫസർ വിൻസെന്റി ചെയ്ത കാര്യങ്ങളുമായി നമുക്ക് മുന്നോട്ടു പോകാം പ്രൊഫസർ വിൻസെന്റി 1990 ൽ എഴുതിയ തന്റെ പ്രസിദ്ധമായ പുസ്തകത്തിൽ എഞ്ചിനീയറിംഗ് പരിജ്ഞാനത്തിന്റെ സ്വഭാവം തിരിച്ചറിയാൻ ശ്രമിച്ചു എഞ്ചിനീയർമാർക്ക് എന്തറിയാം അവർക്ക് അത് എങ്ങനെ അറിയാം ക്ഷമിക്കണം മറ്റു പലരും എഞ്ചിനീയറിംഗ് പരിജ്ഞാനം വർഗ്ഗീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവയെല്ലാം ഏതാണ്ട് സമാനമാണ് അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമല്ല പ്രൊഫസർ വിൻസെന്റിയുടെ വർഗ്ഗീകരണം സമഗ്രമാണെന്നും മറ്റ് തരം വർഗ്ഗീകരണത്തിന്റെ അന്തർഭാവമാണെന്നും നാം കണ്ടെത്തും ഇപ്പോൾ അദ്ദേഹം അവതരിപ്പിച്ച കാര്യങ്ങൾ അനുസരിച്ച് വിൻസെന്റി അറിവിന്റെ ആറ് വിഭാഗങ്ങളെക്കുറിച്ച് സംസാരിച്ചു അതിനർത്ഥം എഞ്ചിനീയറിംഗ് നോക്കുമ്പോൾ ഇവ ഫണ്ടമെന്റൽ ഡിസൈൻ കോൺസെപ്റ്റസ് അഥവാ അടിസ്ഥാന ഡിസൈൻ ആശയങ്ങൾ ക്രൈറ്റീരിയ ആൻഡ് സ്പെസിഫിക്കേഷൻസ് അഥവാ മാനദണ്ഡങ്ങളും സവിശേഷതകളും തിയോറെറ്റിക്കൽ ടൂൾസ് അഥവാ സൈദ്ധാന്തിക ഉപകരണങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അഥവാ അളവിനെ സംബന്ധിക്കുന്നതായ ഡാറ്റ പ്രാക്ടിക്കൽ കോൺസ്ട്രയിന്റ്സ് അഥവാ പ്രായോഗിക നിയന്ത്രണങ്ങളും ഡിസൈൻ ഇൻസ്ട്രുമെന്റലിറ്റീസ് അഥവാ ഡിസൈൻ പ്രേരണകളും ഇവ ഇങ്ങനെ ആറ് വിഭാഗങ്ങളാണ് ഈ വിജ്ഞാന വിഭാഗങ്ങളിൽ തിയോറെറ്റിക്കൽ ടൂൾസ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്നിവ നമ്മളുടെ മുൻ വർഗ്ഗീകരണം വഴി ഫാക്ചുവൽ കോൺസെപ്റ്റുവൽ പിന്നെ പ്രോസെഡ്യൂറൽ പരിജ്ഞാനത്തിൽ പരിഗണിക്കപ്പെടും ഇതിനർത്ഥം ആറിൽ രണ്ടെണ്ണം ഇതിനകം നാം കൈകാര്യം ചെയ്ത അറിവിന്റെ പൊതുവായ വിഭാഗങ്ങളാൽ അഭിസംബോധന ചെയ്യപ്പെടുന്നു അതിനാൽ അവശേഷിക്കുന്നത് ഇതാണ് അറിവിന്റെ പൊതുവായ വിഭാഗങ്ങൾക്ക് പുറത്തുള്ള എഞ്ചിനീയറിംഗിന് പ്രത്യേകമായ വിഭാഗങ്ങൾ ഫണ്ടമെന്റൽ ഡിസൈൻ കോൺസെപ്റ്റസ് ക്രൈറ്റീരിയ ആൻഡ് സ്പെസിഫിക്കേഷൻസ് പ്രാക്ടിക്കൽ കോൺസ്ട്രയിന്റ്സ് ഡിസൈൻ ഇൻസ്ട്രുമെന്റലിറ്റീസ് എന്നിവയാണ് ഈ നാല് വിഭാഗങ്ങളിലെ അറിവിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഒരാൾ ജാഗ്രത പാലിക്കണം കോൺസെപ്റ്റുവൽ അറിവോ പിന്നെ പ്രോസെഡ്യൂറൽ പരിജ്ഞാനമോ പറയുന്നത് ഇതിനു സമാനമാകില്ല അവ അമൂർത്തമായിരിക്കാം മാത്രമല്ല നാം പരിഗണിക്കുന്ന അതേ തലത്തിൽ അവ ഉണ്ടാകില്ല അവയിൽ ഓരോന്നും നമുക്ക് നോക്കാം ഫണ്ടമെന്റൽ ഡിസൈൻ കോൺസെപ്റ്റസ് അഥവാ അടിസ്ഥാന ഡിസൈൻ ആശയങ്ങൾ ഉപകരണങ്ങളുടെ പ്രവർത്തന തത്വങ്ങളും ഉപകരണത്തിനുള്ളിലെ ഘടകങ്ങളും അതാണ് ഫണ്ടമെന്റൽ ഡിസൈൻ കോൺസെപ്റ്റസ് എന്താണ് സംഭവിക്കുന്നത് എന്നാൽ അന്തർലീനമായ ശാസ്ത്രം അല്ലെങ്കിൽ ഭൌതിക പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ രാസ പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ ജൈവശാസ്ത്ര പ്രതിഭാസങ്ങൾ അറിയുന്നത് സ്വയമേവ ഡിസൈൻ ആശയങ്ങളിലേക്ക് നയിക്കുന്നില്ല ഡിസൈൻ ആശയങ്ങൾ ഈ നാല് വിഭാഗങ്ങൾക്ക് പുറത്ത് പൂർണ്ണമായും സൃഷ്ടിക്കപ്പെടുന്നു കൂടാതെ ഒരു ഡിസൈൻ ആശയം അന്തർലീനമായ ശാസ്ത്രം ഉപയോഗിച്ച് വിശദീകരിക്കാം പക്ഷേ ശാസ്ത്രം അറിയുന്നതിന്റെ ഫലമായി അത് യാന്ത്രികമായി പുറത്തുവരാൻ കഴിയില്ല ഉദാഹരണത്തിന് നമുക്ക് പരിചിതമായ എഞ്ചിനീയറിംഗിലെ ചില ഉദാഹരണങ്ങൾ നോക്കാം എന്നാൽ പ്രായോഗികമായി എല്ലാ എഞ്ചിനീയറിംഗ് വിഷയങ്ങളിലും എന്താണ് സംഭവിക്കുന്നത് ഈ ഡിസൈൻ ആശയങ്ങൾ അവയിൽ ശ്രദ്ധിക്കാതെ തന്നെ നാം വളരുന്നു എന്നാൽ ആരോ ഒരു ഡിസൈൻ ആശയം അവതരിപ്പിച്ചു അത് എഞ്ചിനീയറിംഗിലെ നമ്മുടെ ദൈനംദിന പ്രവർത്തന രീതികളുടെ ഭാഗമായി മാറുന്നു ഉദാഹരണത്തിന് ഒരു ഉപകരണത്തിൽ മെമ്മറി ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ ജോലികൾ ചെയ്യാൻ കഴിയും ഇത് ഇലക്ട്രോണിക്സിലാണ് മെമ്മറി ഒരു ഉപകരണത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞാൽ അത് ഇലക്ട്രോണിക് മേഖലയെ മുഴുവൻ പ്രായോഗികമായി മാറ്റുന്നു അവിടെയാണ് മൈക്രോപ്രൊസസ്സർ '70 കളുടെ അവസാനത്തിലും '80 കളുടെ തുടക്കത്തിലും വന്നത് ലോകം ഇപ്പോൾ സമാനമല്ല ഇന്ന് നിങ്ങൾക്ക് ഈ ഡിസൈൻ തത്വം ഉപയോഗിക്കുന്നത് തുടരുന്ന ഒരു മൈക്രോപ്രൊസസ്സർ ഉണ്ട് നാം അത്തരം ശക്തമായ മൈക്രോപ്രൊസസ്സറുകൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ലാപ്ടോപ്പുകളായാലും സ്മാർട്ട്ഫോണുകളായാലും ഞങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഈ അടിസ്ഥാന രൂപകൽപ്പന തത്വത്തിന്റെ ഫലമാണ് മുമ്പത്തെ ഒരു തത്ത്വം നന്നായി നിർവചിക്കപ്പെട്ട രണ്ട് നിലയുള്ള ഒരു ഉപകരണം മെമ്മറി യൂണിറ്റായി ഉപയോഗിക്കാൻ കഴിയും ഉദാഹരണത്തിന് നാം ഉപയോഗിക്കുന്ന പെൻ ഡ്രൈവുകളുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെമ്മറിയുടെ ഭാഗമായി നാം ഉപയോഗിക്കുന്ന മുഴുവൻ മെമ്മറികളും ഈ പ്രത്യേക ഡിസൈൻ തത്വത്തിന്റെ ഫലമാണ് ഏതെങ്കിലും ഉപകരണത്തിന്റെ നന്നായി നിർവചിക്കപ്പെട്ട രണ്ട് നിലകൾ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ ഉപകരണത്തിന്റെ നില മാറുന്നത് തുടരാൻ നിങ്ങൾക്ക് കുറച്ച് നിയന്ത്രണമുണ്ടെങ്കിൽ അത് ഒരു മെമ്മറിയായി മാറും ഇന്ന് വരെ ആളുകൾ ഇപ്പോഴും ആറ്റോമിക് തലത്തിൽ രണ്ട് സ്വതന്ത്ര നിലകളെ എങ്ങനെ തിരിച്ചറിയാമെന്നും നിയന്ത്രിക്കാമെന്നും കണ്ടെത്തുന്നു അല്ലെങ്കിൽ പകരം സ്ഥിരതയുള്ള നിലകൾ ഒപ്പം ഭൌതിക ഉപകരണമോ ആറ്റോമിക് ഉപകരണമോ ചെറുതുമാക്കി മാറ്റുന്നതിലൂടെ ഒരു നിലയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നത് നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും മറ്റൊരു അടിസ്ഥാന രൂപകൽപ്പന ആശയം രണ്ട് പ്രധാന കാന്തികക്ഷേത്രങ്ങൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തിലൂടെ സ്റ്റെപ്പിംഗ് ചലനം സൃഷ്ടിക്കാൻ കഴിയും ഉദാഹരണത്തിന് വിവിധ വ്യാവസായിക ഓട്ടോമേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സ്റ്റെപ്പ് മോട്ടോറുകളും ഈ ഡിസൈൻ ആശയത്തിന്റെ ഫലമാണ് അതായത് രണ്ട് പ്രധാന കാന്തികക്ഷേത്രങ്ങൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനം ഏറ്റവും പ്രസിദ്ധമായത് ഒരു എയർഫോയിൽ അതിന്റെ ആകൃതി കാരണം പ്രത്യേകിച്ചും മൂർച്ചയുള്ള പുറകുവശത്ത് വായു പ്രവാഹത്തിലേക്ക് ഒരു കോണിൽ ചെരിഞ്ഞാൽ ഒരു ലിഫ്റ്റ് സൃഷ്ടിക്കുന്നു അതായത് നമ്മുടെ എല്ലാ പറക്കുന്ന വസ്തുക്കളും ഇതിന്റെ ഫലമാണ് എന്നാൽ ഈ തത്ത്വം വരെ നമ്മൾക്ക് ശരിയായ വിമാനം ഇല്ലെന്ന് ആരോ തിരിച്ചറിഞ്ഞു എന്നാൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള തത്ത്വത്തെ നിസ്സാരമായി കാണുന്നു ഒരാൾക്ക് ഉൽപാദിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഒരു എഞ്ചിനീയർക്ക് ഒരു അടിസ്ഥാന ഡിസൈൻ ആശയം നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ അത് ലോകത്തെ പൂർണ്ണമായും മാറ്റുന്നു എന്നാൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെന്ന നിലയിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ ഈ ഡിസൈൻ ആശയങ്ങളുടെ പങ്കിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം മറ്റൊരു പ്രധാന കാര്യത്തിലേക്ക് വരുന്നത് എഞ്ചിനീയറിംഗിന്റെ ഏറ്റവും കേന്ദ്രം ക്രൈറ്റീരിയ ആൻഡ് സ്പെസിഫിക്കേഷൻസ് അഥവാ മാനദണ്ഡങ്ങളും സവിശേഷതകളുമാണ് ഉപകരണത്തിനായുള്ള ഗുണപരമായ ലക്ഷ്യങ്ങൾ നിർദ്ദിഷ്ട അളവിനെ സംബന്ധിക്കുന്നതായ ലക്ഷ്യങ്ങളിലേക്ക് വിവർത്തനം ചെയ്യേണ്ടത് ആവശ്യമാണ് ഇത് വളരെ ലളിതമായ ഒരു പ്രസ്താവന പോലെ തോന്നുന്നു എന്താണ് സംഭവിക്കുന്നത് എഞ്ചിനീയറിംഗിൽ പിന്തുടരുന്ന എല്ലാ പാഠപുസ്തകങ്ങളും നോക്കുകയാണെങ്കിൽ മാനദണ്ഡങ്ങളെയും സവിശേഷതകളെയും കുറിച്ച് പുസ്തകങ്ങളിൽ ഒന്നും പരാമർശിക്കുന്നില്ല നിങ്ങൾ മാനദണ്ഡങ്ങളും സവിശേഷതകളും ഉപയോഗിച്ച് ആരംഭിക്കാത്ത എഞ്ചിനീയറിംഗ് പ്രവർത്തനങ്ങളൊന്നുമില്ല നിങ്ങൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു സോഫ്റ്റ്വെയർ ടീമിന്റെയോ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ടീമിന്റെയോ ഹാർഡ്വെയർ പ്രൊഡക്റ്റ് ടീമിന്റെയോ ഭാഗമാണെങ്കിലും ഏതെങ്കിലും കമ്പനിയിലെ ഏതെങ്കിലും പ്രോജക്റ്റ് നിങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ കൃത്യമായി എന്താണ് ഉത്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് തീരുമാനിക്കുക നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചെയ്യേണ്ടത് ചില നിർദേശങ്ങളായി എഴുതിയിരിക്കുന്നു നിങ്ങൾ നിർദേശങ്ങളിൽ തെറ്റ് വരുത്തുകയാണെങ്കിൽ ഉൽപ്പന്നത്തിനായി നിങ്ങളുടെ നിർദേശങ്ങൾ വേണ്ടവിധം നിർവ്വചിക്കുന്നില്ലെങ്കിൽ ഒന്നുകിൽ അത് വളരെ ചെലവേറിയതായിത്തീരും നിങ്ങൾ നിർദേശങ്ങൾ അമിതമായി വ്യക്തമാക്കുകയോ അല്ലെങ്കിൽ അവ്യക്തമാക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് വിപണിക്ക് സ്വീകാര്യമല്ലാതായിത്തീരും ഇത് വളരെ നിർണായക തീരുമാനമായി മാറിയേക്കാം ഇന്നത്തെ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളിൽ മാനദണ്ഡങ്ങളുടെയും സവിശേഷതകളുടെയും പ്രാധാന്യം എന്തുകൊണ്ടോ പഠിപ്പിക്കപ്പെടുന്നില്ല ഇത് നിങ്ങളുടെ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ അവിഭാജ്യ ഘടകമായിരിക്കണം എന്താണ് സവിശേഷതകൾ നിങ്ങൾ ഒരു സ്പെസിഫിക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ എന്താണെന്ന് മനസിലാക്കിക്കൊണ്ട് ഒരു വിദ്യാർത്ഥി എല്ലായ്പ്പോഴും വളരണം എന്താണ് ഇതിനർത്ഥം സാമ്പത്തികമായി അല്ലെങ്കിൽ എടുത്ത സമയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഉപയോഗിച്ച സാങ്കേതികവിദ്യയെക്കുറിച്ചോ എന്താണ് അർത്ഥമാക്കുന്നത് ഇവയെല്ലാം മാനദണ്ഡങ്ങളും സവിശേഷതകളും അനുസരിച്ചാണ് തീരുമാനിക്കുന്നത് നമുക്ക് ചില ലളിതമായ ഉദാഹരണങ്ങൾ നോക്കാം ഏതൊരു പവർ കൺവെർട്ടറും എസിയിൽ നിന്ന് ഡിസിയിലേക്കും ഡിസിയിൽ നിന്ന് എസിയിലേക്കും പരിവർത്തനം ചെയ്യുമ്പോൾ 95 ത്തിൽ കൂടുതൽ കാര്യക്ഷമത ഉണ്ടായിരിക്കണം 70 കാര്യക്ഷമത മാത്രമുള്ള ഒരു പവർ കൺവെർട്ടർ നിങ്ങൾ രൂപകൽപ്പന ചെയ്യുകയാണെങ്കിൽ അത് ആർക്കും പ്രയോജനകരമല്ല ആരും ഒരിക്കലും അത് തൊടുകയില്ല കുറഞ്ഞ കാര്യക്ഷമത 95 ആണ് അതിനാൽ തുടക്കം മുതൽ തന്നെ ഈ സവിശേഷത നിങ്ങളുടെ മുഴുവൻ ഡിസൈൻ ഉദ്യമത്തിന്റെയും ഭാഗമായിരിക്കണം ഒരു പവർ കൺവെർട്ടർ എന്താണെന്നത് പ്രവർത്തനപരമായി അറിയുക മാത്രമല്ല വേണ്ടത് ഉപകരണങ്ങളുടെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച എല്ലാ തീരുമാനങ്ങളും സർക്യൂട്ടുകൾ എല്ലാം ഉണ്ടായിരിക്കണം ആദ്യം കണ്ടുമുട്ടേണ്ടത് കാര്യക്ഷമത 95 ന് മുകളിലാണ് എന്നതാണ് എന്നാൽ ഒരു ഉൽപ്പന്നത്തിന് മറ്റ് സവിശേഷതകൾ ഉണ്ടായിരിക്കാം ഉദാഹരണത്തിന് ഇതിന് ഫുട്പ്രിൻറ് ഒരു സവിശേഷത ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അത് എത്രമാത്രം തൂക്കമുണ്ടായിരിക്കണം എത്ര പവറാണ് പരിവർത്തനം ചെയ്യാൻ കഴിയേണ്ടത് അതിനാൽ മറ്റ് നിരവധി സവിശേഷതകളുണ്ടാകാം പക്ഷേ ഒരു കേന്ദ്ര സവിശേഷത ഉണ്ട് അതിന് 95 പരിവർത്തന കാര്യക്ഷമത ഇല്ലെങ്കിൽ അത് കൊണ്ട് നമുക്ക് ഒരു പ്രയോജനവുമില്ല ഡിസി മോട്ടോറിന്റെ സ്പീഡ് കൺട്രോൾ യൂണിറ്റ് പവർ ലൈനിൽ അമിതമായ ഹാർമോണിക് വികൃതത സൃഷ്ടിക്കരുത് അമിതമായത് എന്താണെന്ന് സാധാരണയായി ചില റെഗുലേറ്ററി ഏജൻസി നിർവചിക്കുന്നു അതിനാൽ ഇത് വൈദ്യുതി ലൈനിൽ ഹാർമോണിക് വികലമാക്കരുത് ഇത് നിങ്ങളുടെ വേഗത നിയന്ത്രണ ആവശ്യകത നിറവേറ്റാം എന്നാൽ ഇത് ഹാർമോണിക് ഡിസ്റ്റോർഷൻ പാലിക്കുന്നില്ലെങ്കിൽ അത് സെർട്ടിഫൈ ചെയ്യപ്പെടില്ല എസ് എം പി എസ് ഔട്ട്പുട്ടിന് 0 5 ഔട്ട്പുട്ട് നിയന്ത്രണം ഉണ്ടായിരിക്കണം അതിലുപരിയായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിപണിയിൽ സ്വീകാര്യമാകില്ല 1 മുതൽ 300 ആർപിഎം വരെ 0 05 കൃത്യതയോടെ ഡിസി മോട്ടോറിന്റെ വേഗത നിയന്ത്രിക്കണം ഇപ്പോൾ ഉദാഹരണത്തിന് 0 05 എന്നതിനുപകരം 1 ഞാൻ പറഞ്ഞാൽ ആ യൂണിറ്റിന്റെ വില 0 05 കൃത്യത നൽകുന്ന ഒരു യൂണിറ്റിനേക്കാൾ 100 മടങ്ങ് കുറവായിരിക്കും അതിനാൽ ഒരാൾ വളരെ ശ്രദ്ധിക്കണം കൃത്യത അമിതമായി വ്യക്തമാക്കുന്നതിൽ എഞ്ചിനീയർ വളരെ ശ്രദ്ധാലുവായിരിക്കണം എല്ലാ അർത്ഥത്തിലും അപ്ലിക്കേഷൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അതെ നിങ്ങൾ അത് പാലിക്കണം അല്ലാത്തപക്ഷം ഒരാൾ അമിതമായി വ്യക്തമാക്കരുത് അതിനാൽ ഞങ്ങൾ നിങ്ങൾക്ക് നാല് ഉദാഹരണങ്ങൾ മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നാൽ എഞ്ചിനീയറിംഗിന്റെ എല്ലാ ശാഖകളിലും എല്ലാ തലങ്ങളിലും അത്തരം സാഹചര്യം ഉണ്ടാകുന്നു അതിനാൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളും സവിശേഷതകളും ചർച്ച ചെയ്യുന്നതിന് വിദ്യാർത്ഥിയെ പ്രത്യേകിച്ചും സൂക്ഷ്മബോധമുള്ളയാൾ ആക്കണം ഇപ്പോൾ അറിവിന്റെ മൂന്നാമത്തെ വിഭാഗം പ്രാക്ടിക്കൽ കോൺസ്ട്രയിന്റ്സ് അഥവാ പ്രായോഗിക നിയന്ത്രണങ്ങളാണ് അനുഭവത്തിൽ നിന്നും പരിശീലനത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ മൂർച്ച കുറച്ചു നിർവചിക്കപെട്ട ഒരു കൂട്ടം നിയന്ത്രണങ്ങളാണ് അവ പരാമർശിക്കുന്നത് ഒരു കമ്പ്യൂട്ടറിലേക്ക് ടാബുലേഷൻ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് സൈദ്ധാന്തികമാക്കുന്നതിന് ഇടയ്ക്കിടെ ഇടം കൊടുക്കാത്ത പരിഗണനകൾ ഇതിനർത്ഥം ഈ അറിവിന്റെ സ്വഭാവം ന്യൂട്ടന്റെ ചലനനിയമങ്ങൾ പോലെ മനോഹരമല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ഒരു അൽഗോരിതം പ്രോഗ്രാമിംഗ് എന്നിവ എഴുതാനായി കഴിയുന്നവയല്ല വളരെ ലളിതമായ കാര്യം പോലെ ഏത് ഉപകരണത്തിലെയും ഇൻഡിക്കേറ്റർ വിളക്ക് സ്വിച്ചിന് മുകളിലായിരിക്കണം ഇത് സ്വിച്ചിന് മുകളിലല്ലെങ്കിൽ നിങ്ങൾ സ്വിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ വിളക്ക് മൂടും അത് സ്വിച്ച് ഓൺ ആണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസിലാകില്ല ഇത് വളരെ ലളിതമായ പ്രായോഗിക പരിമിതിയാണ് ഒരു എഞ്ചിനീയർ പതിവായി ഉള്ള ജോലിക്കിടയിൽ അത് സംയോജിപ്പിച്ചിരിക്കാം പക്ഷേ നിങ്ങൾ ആദ്യമായി നിങ്ങളുടെ ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ അല്ല ഉദാഹരണത്തിന് ഫ്രണ്ട് പാനലിൽ തന്നെ ഹീറ്റ് സിങ്കുകൾ ഇടാൻ ശ്രമിക്കുന്ന ഒരാൾ വളരെ മുമ്പേ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ഇത് ഫ്രണ്ട് പാനലിൽ ഇട്ടുകൂടാ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു ഹീറ്റ് സിങ്കുകൾ ചൂട് പുറപ്പെടുവിക്കുന്നു വ്യക്തമായും അവ ഉയർന്ന താപനിലയിലായിരിക്കും നിങ്ങൾ ഒരിക്കലും അത് ഫ്രണ്ട് പാനലിൽ ഇട്ടു കൈ പൊള്ളിക്കില്ല ഇത് വ്യക്തമായും പുറകിലായിരിക്കണം കൂടാതെ ഒരു ഫാനുമായി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് വേണ്ടത്ര തണുപ്പിക്കണം അതിനാൽ ഇവ ചില പ്രായോഗിക പരിമിതികളാണ് മറ്റൊരു ഉദാഹരണം ഉപകരണങ്ങൾക്കും കൈകൾക്കും വിവിധ ഭാഗങ്ങളിൽ എത്താൻ ഒരു ഉപകരണത്തിലെ ഭൌതിക ഭാഗങ്ങൾക്കിടയിൽ അനുവദിക്കേണ്ട അകലങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പുതിയ ഉപകരണം രൂപകൽപ്പന ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ അത് എളുപ്പത്തിൽ തുറക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്നതാണ് ആദ്യം മുകളിലെ പാനൽ അല്ലെങ്കിൽ ബാക്ക് പാനൽ തുറന്ന് അത് എന്തായാലും നിങ്ങൾ അത് തുറന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈകൊണ്ടോ ഉപകരണങ്ങൾ ഉപയോഗിച്ചോ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചേരാനാകണം നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ആ ഉപകരണങ്ങൾ നന്നാക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അത് പൂർണ്ണമായും പൊളിക്കണം ഉപകരണങ്ങൾ സേവിക്കുന്നതിനോ ഉപകരണങ്ങൾ പരിപാലിക്കുന്നതിനോ ഇത് വളരെ ചെലവേറിയതായിത്തീരുന്നു മറ്റൊരു പ്രായോഗിക പരിമിതി ഉണ്ടാകാം ഡിസൈൻ രണ്ട് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണം ഈ അറിവ് പ്രായോഗിക പരിമിതി എന്നിവ നിങ്ങൾ നോക്കുമ്പോൾ നാം എഞ്ചിനീയറിംഗ് സയൻസ് വിഷയങ്ങളിൽ കൈകാര്യം ചെയ്യുന്ന തരത്തിലുള്ള ആശയങ്ങൾ ആശയപരമായ അറിവ് എന്നിവയുമായി ഇത് യോജിക്കുന്നില്ല നിങ്ങൾക്ക് രണ്ട് മാസത്തിനുള്ളിൽ ഉള്ളപ്പോൾ ഇത് എന്താണ് വിവർത്തനം ചെയ്യുന്നത് അതിനർത്ഥം നിങ്ങൾക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്ന ഘടകങ്ങളും ഉപകരണങ്ങളും സാങ്കേതികവിദ്യകളും ഉപയോഗിച്ച് എന്തെങ്കിലും രൂപകൽപ്പന ചെയ്യണം മറ്റൊരു രാജ്യത്ത് ലഭ്യമായ ഒന്നല്ല അത് ആക്സസ് ചെയ്യാൻ ധാരാളം സമയമെടുക്കും അതിനാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾ ഒരു ഉപകരണം രൂപകൽപ്പന ചെയ്യുന്ന രീതിയിലേക്ക് ഇത്തരത്തിലുള്ള നിയന്ത്രണം യഥാർത്ഥത്തിൽ വിവർത്തനം ചെയ്യും മറ്റ് സയൻസ് വിഷയങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ഡിസൈൻ ഇൻസ്ട്രുമെന്റാലിറ്റീസ് എന്നറിയപ്പെടുന്ന മറ്റൊരു തരത്തിലുള്ള വിഭാഗം വരുന്നു ആദ്യമായി എഞ്ചിനീയറിംഗ് പ്രവർത്തനം ഒരു ഗ്രൂപ്പ് പ്രവർത്തനമാണ് ഒരു എഞ്ചിനീയറിംഗ് പ്രവർത്തനം നടത്താൻ ഒരു വ്യക്തിക്കും ഒറ്റക്ക് ഒരിക്കലും കഴിയില്ല ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് പ്രവർത്തിക്കും അവർ പ്രവർത്തി പങ്കിടും അതിനായി ഒരു നേതാവ് ഉണ്ടാകും സാമ്പത്തിക മാനവ വിഭവശേഷി സാങ്കേതികവിദ്യകൾ എന്നിവയിൽ പരിമിതികളുണ്ട് അതിനാൽ അത്തരം സാഹചര്യങ്ങളിൽ ഒരാൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുന്ന നടപടിക്രമങ്ങൾ ചിന്താ രീതി വിധിനിർണ്ണയ കഴിവുകൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രോസെഡ്യൂറൽ നോലെഡ്ജിനെ ഡിസൈൻ ഇൻസ്ട്രുമെന്റാലിറ്റി സൂചിപ്പിക്കുന്നു ചില ഉദാഹരണങ്ങൾ ഒരു ഉൽപ്പന്നത്തിന്റെ രൂപകൽപ്പനയ്ക്കുള്ള ടോപ്പ് ഡൌൺ സമീപനം നിങ്ങൾ ഒരു ഉൽപ്പന്നം രൂപകൽപ്പന ചെയ്യുമ്പോഴെല്ലാം ടോപ്പ് ഡൌൺ സമീപനമാണ് ചെയ്യേണ്ടത് ഒരിക്കലും ബോട്ടം അപ്പ് അല്ല അതൊരു ഡിസൈൻ ഇൻസ്ട്രുമെന്റാലിറ്റിയാണ് മറ്റൊന്ന് നിങ്ങൾ എങ്ങനെ ഒരു ഉൽപ്പന്നത്തിന്റെ വികസനം ഘട്ടംഘട്ടമായി ആഗ്രഹിക്കുന്നു എന്നതാണ് ഡിസൈനിന്റെ എല്ലാ വശങ്ങളും ഒരേസമയം സമീപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് ഘട്ടം ഘട്ടമായി വേണം അത് വളരെ സാധാരണ പ്രക്രിയയാണ് അത്തരം അനുഭവം വിദ്യാർത്ഥിക്ക് നൽകണം ഏതെങ്കിലും പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഘട്ടം ഒരു ഇലക്ട്രോണിക് ഉൽപ്പന്നത്തിന്റെ ഘടന യഥാർത്ഥ സർക്യൂട്ടുകളും അതിലെ എല്ലാ എലമെൻറ് സബ്സിസ്റ്റങ്ങളും രൂപകൽപ്പന ചെയ്യുന്നതിനുമുമ്പ് ഉൽപ്പന്നത്തെ മാനസികമായി രൂപകൽപ്പന ചെയ്യാനോ ചിത്രങ്ങൾ വരയ്ക്കാനോ അല്ലെങ്കിൽ ഞാൻ ദൃശ്യവൽക്കരിക്കുന്ന രീതിയിൽ ഉൽപ്പന്നം റെൻഡർ ചെയ്യാനോ എനിക്ക് കഴിയണം ഉദാഹരണത്തിന് ഡിസൈൻ വാക്ക്ത്രൂസ് എന്ന് വിളിക്കപ്പെടുന്ന ഒന്ന് ഈ ദിവസത്തെ മിക്ക സോഫ്റ്റ്വെയർ ഉൽപ്പന്ന വികസനത്തിന്റെയും ഭാഗമാണ് അതായത് മറ്റാരെങ്കിലും നിങ്ങളുടെ ഡിസൈനിലൂടെ നടന്ന് അവരുടെ അഭിപ്രായങ്ങൾ നൽകുന്നു മറ്റൊരു ഡിസൈൻ ഇൻസ്ട്രുമെന്റാലിറ്റിക്കുള്ള ഉദാഹരണം ഇപ്പോഴും വ്യത്യസ്ത നിലവാരമുള്ള ടീമിലെ എല്ലാ അംഗങ്ങളെയും നേരത്തെ തിരിച്ചറിയുകയും ഗ്രൂപ്പ് ആശയവിനിമയത്തിലെ എല്ലാ അംഗങ്ങളെയും തുടക്കത്തിൽ തന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യുക അത് ഒരു പ്രക്രിയയാണ് ടീം ഫലപ്രദമാകുന്നതിന് നിങ്ങൾ പിന്തുടരുന്ന ഒരു നടപടിക്രമം ഫണ്ടമെന്റൽ ഡിസൈൻ കോൺസെപ്റ്റസ് ക്രൈറ്റീരിയ ആൻഡ് സ്പെസിഫിക്കേഷൻസ് പ്രാക്ടിക്കൽ കോൺസ്ട്രയിന്റ്സ് ഡിസൈൻ ഇൻസ്ട്രുമെന്റാലിറ്റികൾ എന്നിങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് പരിജ്ഞാനത്തിന്റെ ഈ നാല് വിഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലെ നിരവധി കോഴ്സുകളിൽ അവ തുടക്കം മുതൽ തന്നെ ഉൾപ്പെടുത്തണം ഇല്ലെങ്കിൽ നിങ്ങൾ എഞ്ചിനീയറായി ഒരാളെ പരിശീലിപ്പിക്കുന്നില്ല അതിനാൽ നിങ്ങൾ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന അസൈൻമെന്റ് ഇപ്പോൾ നോക്കാം നിങ്ങൾക്ക് പരിചിതമായ എഞ്ചിനീയറിംഗ് കോഴ്സുകളിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് പരിജ്ഞാനത്തിന്റെ നാല് വിഭാഗങ്ങളിൽ നിന്നുള്ള വിജ്ഞാന ഘടകങ്ങളുടെ കുറഞ്ഞത് നാല് ഉദാഹരണങ്ങളെങ്കിലും തിരിച്ചറിയുക വിജ്ഞാന ഘടകങ്ങൾ തിരിച്ചറിയുക ഓരോ ഘടകത്തെയും രണ്ട് മൂന്ന് വാക്കുകളിൽ വിവരിക്കുക എന്നാൽ വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട പ്രസക്തമായ എഞ്ചിനീയറിംഗ് പരിജ്ഞാനം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കണം ശരി അടുത്ത യൂണിറ്റിൽ നമ്മളുടെ പഠന ടാക്സോണമി തുടർന്നു നോക്കും അഫക്റ്റീവ് സൈക്കോമോട്ടോർ ഡൊമെയ്നുകളുടെ സ്വഭാവം ഹ്രസ്വമായി മനസിലാക്കാൻ നാം സമയം ചിലവഴിക്കും അഫക്റ്റീവ് ഡൊമെയ്ൻ വളരെ പ്രധാനമാണെങ്കിലും നമ്മുടെ പതിവ് നിർദ്ദേശങ്ങളുമായി അത് എങ്ങനെ സംയോജിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മതിയായ അറിവില്ല അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചോ പ്രബലമായ പങ്കിനെക്കുറിച്ചോ നമ്മൾ ബോധവാന്മാരാണെങ്കിലും ഇപ്പോൾ നമുക്ക് നമ്മുടെ അവബോധജന്യമായ രീതികൾ മാത്രമേ സ്വീകരിക്കാനാകൂ പക്ഷേ അഫക്റ്റീവ് സൈക്കോമോട്ടോർ ഡൊമെയ്നുകളെക്കുറിച്ചുള്ള ഒരു ചുരുക്കവിവരണം ഞങ്ങൾ അവതരിപ്പിക്കും നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെ നന്ദി